അഭിമുഖം നടത്തുന്നയാൾ ഹായ് നിങ്ങളുടെ പേര് എന്താണ് അഭിമുഖം സ്വീകരിക്കുന്നയാൾ ദേവദത്ത് ദാസ് അഭിമുഖം നടത്തുന്നയാൾ ദേവദത്ത് ദാസ് അഭിമുഖംസ്വീകരിക്കുന്നയാൾ അതെ അഭിമുഖം നടത്തുന്നയാൾ ദേവദത്ത് നിങ്ങളെക്കുറിച്ച് ഒരു ലഘു ആമുഖം തരാമോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഞാൻ കൊൽക്കത്തയിൽ നിന്നുള്ള ആളാണ് പൂനെയിലെ സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെൻറ് നിന്ന് എംബിഎ ഇന്നോവേഷൻ എന്റർപ്രണർഷിപ്പ് എന്നിവ നേടിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഇവിടെ മൂന്ന് മാസമായി ഞാൻ ഈ കോഴ്സ് ആസ്വദിക്കുന്നു ബിസിനസ്സുകളെക്കുറിച്ചും യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നും അറിയുന്നതിന് ഇത് എന്നെ സഹായിക്കുന്നു അഭിമുഖം നടത്തുന്നയാൾ പ്രായം എത്രയായി എന്ന് പറയാമോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ എനിക്ക് 26 വയസ്സായി അഭിമുഖം നടത്തുന്നയാൾ 26 അഭിമുഖ സ്വീകരിക്കുന്നയാൾ അതെ അഭിമുഖം നടത്തുന്നയാൾ ദേവദത്ത് അടിസ്ഥാനപരമായി ഞങ്ങൾ ഐ ടി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്ഗാനം പരിഹാരം കണ്ടെത്തുന്നവർ ആയി പ്രവർത്തിക്കുന്നു ആളുകൾ എങ്ങനെ എഴുതുന്നു എന്തെല്ലാം പ്രവർത്തനങ്ങൾ അതിനു പുറകിൽ ഉണ്ട് എന്നിങ്ങനെ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് അഭിമുഖം സ്വീകരിക്കുന്നയാൾ തീർച്ചയായും അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ നിങ്ങൾ എത്രത്തോളം എഴുതാറുണ്ട് അഭിമുഖം സ്വീകരിക്കുന്നയാൾ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്നത് പോലെ ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല എന്നാൽ ചിലത് ഞാൻ എഴുതാൻ താല്പര്യപ്പെടുന്നു പക്ഷേ എൻറെ ചിന്തകളും വികാരങ്ങളും ഉണർന്നു എഴുതാനുള്ള ഉപകരണം കണ്ടെത്തിയിട്ടില്ല അതിനാൽ അവ എഴുതാൻ പേനയും പേപ്പറും ആണ് നല്ലത് എന്ന് ഞാൻ കരുതുന്നു അഭിമുഖം നടത്തുന്നയാൾ നിങ്ങൾ പലപ്പോഴും എഴുതുന്നില്ല എന്ന് പറയുന്നു എന്നാൽ നിങ്ങൾക്ക് ചിലതരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും അഭിമുഖം സ്വീകരിക്കുന്നയാൾ എൻറെ ഡയറി എപ്പോഴും ഞാൻ കൈവശം വയ്ക്കാറുണ്ട് അതിനാൽ ഞാൻ കാര്യങ്ങൾ പോയിൻറ്കൾ ആയി കുറിക്കുന്നു അഭിമുഖം നടത്തുന്നയാൾ നിങ്ങൾ കൂടുതലും എഴുതുന്നത് ഡയറിയിൽ ആണ് അല്ലേ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ എന്നാൽ ചില പ്രദേശങ്ങളിൽ എനിക്ക് എൻറെ ബാഗുകൾ എടുക്കാൻ കഴിയില്ല അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ എൻറെ മൊബൈൽ ഫോണിൽ ആണ് എഴുതാറുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ ലാപ്ടോപ്പിനെകാൾ സൌകര്യം മൊബൈൽ ഫോൺ ആണ് അതിനാൽ മൊബൈൽ ഫോണിൽ സന്ദേശത്തിൽ ഞാൻ അവ ടൈപ്പ് ചെയ്യുന്നു അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ നോട്ട് എന്ന ഒരു അപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിച്ചിരുന്നു അഭിമുഖം നടത്തുന്നയാൾ നോട്ട് അഭിമുഖം സ്വീകരിക്കുന്നയാൾ ശേഷം പലപ്പോഴായി മൊബൈൽ മാറ്റിയതിനാൽ അപ്ലിക്കേഷനുകൾ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഞാൻ അത് സന്ദേശത്തിൽ എഴുതുന്നു ഒരു റാൻഡം നമ്പർ നൽകി ഡ്രാഫ്റ്റ് ബോക്സിൽ സംരക്ഷിക്കുന്നു അഭിമുഖം നടത്തുന്നയാൾ നിങ്ങൾ സൂചിപ്പിച്ചത് പോലെ ഒരു നോട്ട് ബുക്ക് അഥവാ ഡയറി നിങ്ങൾ വഹിക്കുന്നുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ ക്ലാസ്സിൽ ഞാൻ എല്ലായിപ്പോഴും ചെയ്തിരുന്നു അഭിമുഖം നടത്തുന്നയാൾ ക്ലാസ്സിൽ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ ഞാൻ എല്ലായിപ്പോഴും ചെയ്തിരുന്നു എന്നാൽ എൻറെ മിക്ക ചങ്ങാതിമാരും പകർപ്പുകളും മറ്റും ആണ് വഹിച്ചിരുന്നത് അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ റെക്കോർഡുകൾ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ അവർ കൂടുതലും ലാപ്ടോപ്പുകളിൽ ടൈപ്പ് ചെയ്തു സൂക്ഷിച്ചിരുന്നു പക്ഷേ വ്യക്തിപരമായി അപ്പോഴും കടലാസിൽ എഴുതാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ നിങ്ങൾ ഒരു ഡയറി നിങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ അടിസ്ഥാനപരമായി നിങ്ങൾ ആ ഇൻപുട്ടുകൾ എത്രതവണ ഉപയോഗിക്കുന്നു അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ എല്ലാ ക്ലാസിലും ഞാൻ ഇത് ഉപയോഗിച്ചിരുന്നു വേണ്ടപ്പെട്ടവ ഞാൻ എഴുതി വച്ചിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ അത് മൊബൈൽ ഫോണിൽ ആണ് എഴുതാറുള്ളത് എന്നാൽ ഇപ്പോൾ ഞാൻ പുസ്തകം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു കാരണം പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറ്റപ്പെടുന്നു അതിനാൽ ഡാറ്റ നഷ്ടപ്പെടും എന്ന് കരുതുന്നു അതിനാൽ ഞാൻ പകർപ്പുകൾ സൂക്ഷിക്കുന്നു അതിനായി പേജുകളുടെ ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്തു ഡ്രൈവിൽ സൂക്ഷിക്കുന്നു അഭിമുഖം നടത്തുന്നയാൾ ശരി അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതിനാൽ അവൻ നഷ്ടപ്പെടാതെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും അഭിമുഖം നടത്തുന്നയാൾ അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതുന്ന ഉള്ളടക്കത്തിന്റെ ഫോട്ടോകൾ ക്ലിക്കുചെയ്യുകയാണോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെകാരണം ഡയറിയിൽ എനിക്ക് ചിത്രങ്ങൾ വരയ്ക്കാം എഴുതുമ്പോൾ ചിലപ്പോൾ മുഴുവനും എഴുതാൻ സമയം എനിക്ക് ലഭിക്കുകയില്ല ഇത്തരം സാഹചര്യങ്ങളിൽ ചിത്രം വരച്ച് ഉദ്ദേശിച്ച വിഷയവുമായി ബന്ധിപ്പിക്കുന്നു അതിനാൽ അവ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും ശേഷം അവയെപ്പറ്റി എഴുതും അഭിമുഖം നടത്തുന്നയാൾ അടുത്തതായി നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രക്രിയ എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താമോ അടുത്ത ദിവസം നിങ്ങൾക്ക് ഒരു പരീക്ഷയുണ്ട് എന്ന് സങ്കൽപ്പിക്കുക തലേദിവസം രാത്രി നിങ്ങൾ തയ്യാറെടുപ്പ് ആരംഭിക്കുന്നു ആ നിമിഷങ്ങളെ പറ്റി വിവരിക്കാമോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ശരിആദ്യമായി സിലബസ് മനസ്സിലാക്കുന്നു അവയിൽ പ്രധാനപ്പെട്ടവ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം അവർ ഏത് വിഭാഗത്തിൽ നിന്നാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നു മനസ്സിലാക്കണം അഭിമുഖം നടത്തുന്നയാൾ അതിനാൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഉണ്ട് ആദ്യം അവയെപ്പറ്റി എല്ലാം തിരിച്ചറിഞ്ഞ ശേഷം അവർ ചോദിക്കുന്ന ഏറ്റവും സാധാരണമായ ചോദ്യം എന്താണെന്ന് ഞാൻ ഇൻറർനെറ്റിൽ തിരയുന്നു കാരണം എനിക്ക് വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ അതിനാൽ മുഴുവൻ വിഷയവും ചുരുങ്ങിയ സമയം കൊണ്ട് വായിക്കാൻ കഴിയില്ല അഭിമുഖം നടത്തുന്നയാൾ ശരി അഭിമുഖം സ്വീകരിക്കുന്നയാൾഇപ്പോൾ എല്ലാ പ്രധാന ആശയങ്ങളെയും പറ്റി അറിയാം അതിനാൽ യൂട്യൂബിൽ വീഡിയോകൾ വഴി ഇവയെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കും വായിക്കുന്നതിനേക്കാൾ വീഡിയോയിൽ നിന്ന് പഠിക്കുന്ന പ്രവണത എനിക്കുണ്ട് ആളുകൾ അവസാന ഭാഗത്തുള്ളവ മാത്രം വായിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല വീഡിയോയിൽ നിന്നും അതുപോലെ മറ്റ് ഉറവിടങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് അറിയാവുന്നവർ പറയുന്നത് പഠിക്കാൻ ശ്രമിക്കും ഇത് വഴി പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ സാധിക്കും അതിനാൽ ഒരു രാത്രിയിൽ ഇത്ര മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഓരോ പാഠത്തിൽ നിന്നും മനസ്സിലാക്കുക അത്രതന്നെ അഭിമുഖം നടത്തുന്നയാൾ അതിനാൽ പരീക്ഷയ്ക്ക് തയ്യാറാക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്രോതസ്സ് ഇൻറർനെറ്റ് ആണല്ലേ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ ഇൻറർനെറ്റ് അഭിമുഖം നടത്തുന്നയാൾ യൂട്യൂബ് വീഡിയോകൾ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ യൂട്യൂബ് വീഡിയോകൾ ഇൻറർനെറ്റിൽ അവയാണ് കൂടുതലും അഭിമുഖം നടത്തുന്നയാൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ തയ്യാറാക്കിയ നോട്സ് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുറിപ്പുകൾ തയ്യാറാക്കുന്നു എന്നാൽ എൻറെ തന്ത്രം ചിലപ്പോൾ മാറുന്നു ചിലപ്പോൾ ഞാൻ കുറിപ്പ് തയ്യാറാക്കാറില്ല എൻറെ കയ്യിൽ നല്ല പുസ്തകങ്ങൾ ഉണ്ട് അവയിൽനിന്ന് പ്രധാനപ്പെട്ട പോയിൻറ്കൾ പഠിക്കുന്നു ഞാൻ ക്ലാസ് 11 12 ആയിരുന്ന സമയത്ത് അവിടെ നല്ല കൂട്ടം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അഭിമുഖം നടത്തുന്നയാൾ നിങ്ങളുടെ അനുഭവം എസ്ഐബിഎമ്മിൽ നിന്ന് മാത്രമല്ല നിങ്ങളുടെ മുഴുവൻ പഠന അനുഭവത്തിൽ നിന്നും പരീക്ഷകളെ സമീപിക്കുന്നതിനെപ്പറ്റി പറയാം അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഞാൻ വളർന്നപ്പോൾ എംബിഎ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കൂട്ടം പുസ്തകങ്ങളുണ്ട് ധാരാളം പുസ്തകങ്ങളുണ്ട് അധ്യാപകരുടെയും പിപിടികളും ഇപ്പോൾ വളരെ ഉപകാരപ്രദമാണ് 11 12 കാലഘട്ടത്തിൽ എൻസിഇആർടി യുടെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അതിൽനിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ വിഷയം വളരെ വിശാലമായതിനാൽ അഭിമുഖം നടത്തുന്നയാൾ ശരിയാണ് വിഷയങ്ങൾ ഒരുപാടുണ്ട് അഭിമുഖം സ്വീകരിക്കുന്നയാൾ പ്രധാനമായും ചില അധ്യാപകരുടെ കുറിപ്പുകൾ നിന്നാണ് പഠിക്കുന്നത് അവയാണ് പ്രധാന ഉറവിടം അതിനുശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം താല്പര്യമുണ്ടെങ്കിൽ ലൈബ്രറിയിൽ പോയാൽ ഈ വിഷയങ്ങളെപ്പറ്റി പുസ്തകങ്ങൾ ലഭ്യമാണ് അഭിമുഖം നടത്തുന്നയാൾ എങ്ങനെയാണ് അധ്യാപകരുടെ നോട്ട്സ് ലഭിക്കുന്നത് അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഞാൻ പി പി ടി യുടെ ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു അഭിമുഖം നടത്തുന്നയാൾ ഏതു ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു അഭിമുഖം സ്വീകരിക്കുന്നയാൾ പി പി ടി യുടെ അഭിമുഖം നടത്തുന്നയാൾ അധ്യാപകർ അവ പങ്കിടാറുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഉണ്ട് ചിലപ്പോൾ ഞാൻ പിപിടികൾ ആവശ്യപ്പെടാറുണ്ട് പക്ഷേ അധ്യാപകർ ആ പിപിടികൾ കൈമാറാൻ കുറച്ചുസമയം എടുക്കുന്നതിനാൽ ഞാൻ ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു മാത്രമല്ല എല്ലാം എഴുതുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഇവ എനിക്ക് ലഭിക്കുന്നത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന തരത്തിൽ ഞാൻ അത് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുന്നു അതുവഴി ക്ലാസ് അംഗങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ എല്ലാവർക്കും ഒരു പൊതു ഡ്രൈവ് ലഭ്യമാണ്ല്ലേ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ ഞാൻ സി ആർ ആയതിനാൽ എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്നതിനായി ഞാൻ ഈ കാര്യം ചെയ്യുന്നു കാരണമെന്തെന്നാൽ ക്ലാസിൽ പഠിപ്പിച്ച കാര്യങ്ങളുടെ ഒരു ട്രാക്ക് അറിയുന്നതിന് ഇത് വളരെ ഉപകാരപ്രദമാണ് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അഭിമുഖം നടത്തുന്നയാൾ നിങ്ങളുടെ അഭിമുഖം അവസാനിച്ചിരിക്കുന്നു വളരെ നന്ദി അഭിമുഖം സ്വീകരിക്കുന്നയാൾ വളരെ നന്ദി അഭിമുഖം സ്വീകരിക്കുന്നയാൾ എൻറെ പേര് ഹീറ്റ് താക്കൂർ ഞാൻ മുംബൈയിൽ നിന്നാണ് എനിക്ക് 21 വയസ്സായി സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെൻറ് ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പിൽ ഞാൻ എംബിഎ ചെയ്യുന്നു അഭിമുഖം നടത്തുന്നയാൾ പഠനവും എഴുത്തും സംബന്ധിച്ച കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എത്ര തവണ എഴുതാറുണ്ട് അഭിമുഖം സ്വീകരിക്കുന്നയാൾ പതിവായി ഇല്ല എന്നാൽ എന്തെങ്കിലും പ്രധാനപ്പെട്ടതാണെങ്കിൽ ഞാൻ അവ എഴുതിവെക്കാറുണ്ട് അഭിമുഖം നടത്തുന്നയാൾ ഇതേ ശീലം നിങ്ങൾ ക്ലാസിലും പുലർത്താറുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഉണ്ട് അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ ക്ലാസ് മുറിയിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയലുകൾ കരുതാറുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഉണ്ട് ഞാൻ ഒരു നോട്ട്ബുക്ക് കരുതാറുണ്ട് അതിലാണ് എനിക്ക് പ്രധാനപ്പെട്ടവ എഴുതാറുള്ളത് അഭിമുഖം നടത്തുന്നയാൾ ശരി അപ്പോൾ ക്ലാസിൽ പ്രധാനപ്പെട്ടവ എന്ന് തോന്നുന്നത് നിങ്ങൾ ഒരു നോട്ടുബുക്കിൽ എഴുതാറുണ്ട് അല്ലേ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ അഭിമുഖം നടത്തുന്നയാൾകൊള്ളാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ആവശ്യമാണെന്നു തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടോ ഉദാഹരണത്തിന് ഒരു പ്രത്യേക വിഷയം ഒരു പ്രത്യേക തരം പഠനം നിങ്ങൾക്ക് കൂടുതലായി അവയെപ്പറ്റി എഴുതണമെന്ന് തോന്നാറുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഇത് നമ്മുടെ വിഷയ താല്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു വിഷയമെന്ന നിലയിൽ സംരംഭകത്വത്തിന്റെ അടിസ്ഥാനം എന്ന വിഷയം എടുക്കുകയാണെങ്കിൽ ഞാൻ വ്യക്തിപരമായി ഈ വിഷയം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടായിരിക്കാം ഇതിനെ പറ്റിയിട്ടുള്ള ള ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ എഴുതി വയ്ക്കാറുണ്ട് ഇഷ്ടമല്ലാത്ത ഒരു വിഷയം ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും അപ്പോൾ ഇത് വിഷയത്തെ ആശ്രയിച്ചിരിക്കുന്നു അഭിമുഖം നടത്തുന്നയാൾ വിഷയമാണോ താൽപര്യം ആണോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ താല്പര്യം അഭിമുഖം നടത്തുന്നയാൾ ശരി കൊള്ളാം ഒരു പരീക്ഷയിലൂടെ തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രക്രിയ എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങളെ അറിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അടുത്തദിവസം ഒരു പരീക്ഷ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക തലേദിവസം രാത്രി നിങ്ങൾ തയ്യാറെടുപ്പ് ആരംഭിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന എല്ലാതരം പ്രവർത്തനങ്ങളും പറയാമോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോകൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണുകയും അത് ശ്രദ്ധിക്കുകയും കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു ശേഷം മെറ്റീരിയൽ പഠിക്കുകയും ചെയ്യും അഭിമുഖം നടത്തുന്നയാൾ നിങ്ങൾ വീഡിയോകൾ കാണുന്ന ശീലം ഉണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഉണ്ട് അഭിമുഖം നടത്തുന്നയാൾ എന്തിൽനിന്നും എത്തരത്തിലുള്ള വീഡിയോസ് ആണ് കാണാറുള്ളത് അഭിമുഖം സ്വീകരിക്കുന്നയാൾ യൂട്യൂബിൽ നിന്നാണ് കൂടാതെ ആക്സസ് ലഭിക്കുന്ന വ്യത്യസ്ത സൈറ്റുകളും ഉണ്ട് അഭിമുഖം നടത്തുന്നയാൾ അവ ഏതെല്ലാമാണ് അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഞാൻ എൻറെ SNAPപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ 'ഹിറ്റ്ബുൾഐ'എന്നറിയപ്പെടുന്ന സൈറ്റിലൂടെ ഞാൻ തയ്യാറെടുത്തിരുന്നു അഭിമുഖം നടത്തുന്നയാൾ 'ഹിറ്റ്ബുൾഐ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ അതിൽ ഒരുപാട് മെറ്റീരിയലുകൾ ഓഫർ ചെയ്തിരുന്നു അഭിമുഖം നടത്തുന്നയാൾ വീഡിയോയ്ക്കൊപ്പം നിങ്ങൾക്ക് ഒരു നോട്ട്പാഡോ നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു എന്നു പറഞ്ഞിരുന്നു അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ വീഡിയോയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തുതന്നെയായാലും ഞാൻ അതിൽ കുറിക്കുകയും പിന്നീട് റഫർ ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യും അഭിമുഖം നടത്തുന്നയാൾ ശരി കൊള്ളാം അതിനാൽ വീഡിയോകൾ കൂടാതെ നിങ്ങളുടെ പഠന പ്രവർത്തനത്തിൽ മറ്റെന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ തയ്യാറെടുക്കുകയാണെന്ന് കരുതുക നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് കൂടാതെ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ നിങ്ങൾ പഠന പ്രക്രിയയായി ഉപയോഗിക്കുന്നുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ എൻറെ പക്കൽ ഒരു ചെറിയ നോട്ട് ബുക്ക് ഉണ്ട് അതിൽ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥിതിവിവരങ്ങൾ എഴുതുകയും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനായി സൂക്ഷിക്കുകയും ചെയ്യുന്നു അഭിമുഖം നടത്തുന്നയാൾ മറ്റ് രീതികൾ ഒന്നും ഇല്ല അല്ലേ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഇല്ല അഭിമുഖം നടത്തുന്നയാൾ ഇവിടെ സമാഹരിക്കുന്നു വളരെ നന്ദി അഭിമുഖം സ്വീകരിക്കുന്നയാൾ നന്ദി അഭിമുഖം സ്വീകരിക്കുന്നയാൾ എൻറെ പേര് കുനാൽ ഞാൻ ഐ ഇ കോഴ്സിന്റെ ഒന്നാം വർഷത്തിലാണ് അഭിമുഖം നടത്തുന്നയാൾ നിങ്ങളുടെ കോളേജ് അഭിമുഖം സ്വീകരിക്കുന്നയാൾ എസ് ഐ ബി എം സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെൻറ് അഭിമുഖം നടത്തുന്നയാൾ നിങ്ങളുടെ പ്രായം അഭിമുഖം സ്വീകരിക്കുന്നയാൾ എനിക്ക് 22 വയസ്സായി അഭിമുഖം നടത്തുന്നയാൾ ശരി കുനാൽനിങ്ങളുടെ എഴുത്തും പഠന പ്രവർത്തനവുമായി ബന്ധിപ്പിച്ച് കുറച്ചു ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നു എത്രതവണ നിങ്ങൾ എഴുതുന്നു എന്ന് കരുതുന്നു അഭിമുഖം സ്വീകരിക്കുന്നയാൾ നോട്ട്ബുക്കിൽ ആണോ അഭിമുഖം നടത്തുന്നയാൾ അതെ അത് എവിടെയും ആകാം അഭിമുഖം സ്വീകരിക്കുന്നയാൾ എല്ലാദിവസവും അഭിമുഖം നടത്തുന്നയാൾ എല്ലാ ദിവസമോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ അഭിമുഖം നടത്തുന്നയാൾ വളരെ നല്ലത് എപ്പോഴാണ് നിങ്ങൾ സാധാരണയായി എഴുതുന്നത് നിങ്ങൾ എന്താണ് എഴുതുന്നത് അഭിമുഖം സ്വീകരിക്കുന്നയാൾപ്രഭാഷണങ്ങൾ പങ്കെടുക്കുമ്പോൾ എൻറെ ലാപ്ടോപ്പ് കൈവശം ഉണ്ടാകും അതിനാൽ ഞാൻ എൻറെ ലാപ്ടോപ്പിൽ തന്നെ കുറിപ്പുകൾ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ എൻറെ ഒരു നോട്ട്പാഡ് ബാഗിൽ ഉണ്ടാകും അതിലും ഞാൻ പ്രധാനപ്പെട്ടവ എഴുതാറുണ്ട് പ്രധാനപ്പെട്ടതും ഭാവിയിൽ പരാമർശിക്കാവുന്നതുമായ എന്തെങ്കിലും പ്രധാന പോയിൻറ്കൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാറുണ്ട് അഭിമുഖം നടത്തുന്നയാൾ അതിനാൽ എഴുതുന്നതിനുള്ള നിങ്ങളുടെ അടിസ്ഥാന മെറ്റീരിയൽ നിങ്ങളുടെ നോട്ട്പാഡ് ആണോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ എൻറെ ലാപ്ടോപ്പ് ആണ് അഭിമുഖം നടത്തുന്നയാൾ നിങ്ങളുടെ ലാപ്ടോപ്പ് അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ അഭിമുഖം നടത്തുന്നയാൾ ക്ലാസ് റൂമിൽ ഇതിൽ അല്ലാതെ മറ്റേതെങ്കിലും മെറ്റീരിയലിൽ എഴുതാറുണ്ടോ അഭിമുഖ സ്വീകരിക്കുന്നയാൾ ഉണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച നോട്ടുബുക്കിൽ എഴുതാറുണ്ട് അഭിമുഖം നടത്തുന്നയാൾ ക്ലാസ് റൂം സംബന്ധം അല്ലാതെ മറ്റെവിടെയെങ്കിലും നിങ്ങൾ എഴുതാറുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഞാൻ ക്വോറയിൽ സജീവമാണ് അതിനാൽ ചിലപ്പോൾ ഞാൻ ക്വോറയിൽ എഴുതുന്നു വളരെ കുറവാണ് എന്നിരുന്നാലും ചിലപ്പോൾ എഴുതാറുണ്ട് അഭിമുഖം നടത്തുന്നയാൾ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ പാലിക്കുന്ന പ്രക്രിയയിലൂടെ ഞങ്ങളെ ഒന്നു കൊണ്ടുപോകാമോ അടുത്തദിവസം നിങ്ങൾക്ക് ഒരു പരീക്ഷ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക അതിനാൽ തലേന്ന് രാത്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എന്തെല്ലാം പ്രക്രിയ ആണ് ചെയ്യാറുള്ളത് അഭിമുഖം സ്വീകരിക്കുന്നയാൾ പരീക്ഷകൾക്കായി ഞാൻ വ്യവസ്ഥാപിതമായി തയ്യാറെടുക്കാൻ ശ്രമിക്കുന്നു ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു പിന്നീട് ക്രമമായി പോയിൻറ്കൾ ആയി എഴുതുന്നു തുടർന്ന് പോയിൻറ്കൾ എല്ലാം വിശദമായി വിവരിക്കുന്നു അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ നിങ്ങൾ ഏതു തരത്തിലുള്ള പഠനസാമഗ്രികൾ ആണ് ഉപയോഗിക്കുന്നത് അതിനായി നിങ്ങൾക്ക് ചുറ്റും എങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഉണ്ട് അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഒരു മത്സര പരീക്ഷയ്ക്ക് ആണോ അഭിമുഖം നടത്തുന്നയാൾ ഏതു പരീക്ഷയും ആവാം അഭിമുഖംസ്വീകരിക്കുന്നയാൾ റഫറൻസ് പുസ്തകങ്ങൾ വെബ്സൈറ്റുകൾ എന്നിവ കൂടുതൽ ഉൾക്കാഴ്ച നൽകാൻ സഹായിക്കുന്നു കൂടാതെ ചില വിദ്യാഭ്യാസ പോർട്ടലുകൾ അവ കൂടുതൽ അറിവും കുറുക്കുവഴികൾ പഠിക്കാനും സഹായകരമാകുന്നു അഭിമുഖം നടത്തുന്നയാൾ ശരി അതിനാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണമായ മെറ്റീരിയലുകൾ ഇവയെല്ലാം ആണോ നിങ്ങൾ പതിവായി പുസ്തകമെഴുതുന്നു എന്ന് പറഞ്ഞു അതിനാൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആ കുറിപ്പുകൾ റഫർ ചെയ്യാറുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ചിലപ്പോൾ ചെയ്യാറുണ്ട് അഭിമുഖം നടത്തുന്നയാൾ അതെ എന്തിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു അഭിമുഖം സ്വീകരിക്കുന്നയാൾ നാളെ എനിക്ക് എഴുതേണ്ട പേപ്പർ ബുദ്ധിമുട്ടുള്ള വിഷയം ആണെന്ന് കരുതുക അതിനാൽ ഞാൻ തയ്യാറെടുക്കുന്ന ദിവസം മുതൽ ആ കുറിപ്പുകൾ എല്ലാം ഞാൻ റഫർ ചെയ്യും അല്ലെങ്കിൽ വളരെ പ്രായോഗികമായ ഏതെങ്കിലും വിഷയങ്ങൾ ആണെങ്കിൽ വെബ്സൈറ്റിൽ പോയി അതിൽ നിന്ന് വ്യത്യസ്തമായ അറിവ് നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൽനിന്നും പഠിച്ച ചില ഉദാഹരണങ്ങൾ പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്താനും കഴിയും അഭിമുഖം നടത്തുന്നയാൾ നിങ്ങൾ ഒരു കേസ് റഫർ ചെയ്യുകയാണ് അതിൻറെ ഭാഗമായി വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ഉള്ളടക്കങ്ങൾ തിരയുകയാണ് അതിൻറെ ഭാഗമായി അതിൽ നിന്നും മനസ്സിലാക്കുന്നവ നിങ്ങൾ എഴുതി വെക്കാറുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഞാൻ ആ ഉദാഹരണങ്ങളുടെ കീവേഡുകൾ മാത്രമാണ് എഴുതാറുള്ളത് ഉദാഹരണമായി ടാറ്റയുടെഒരു കേസ് പഠനം ആണെന്ന് വിചാരിക്കുക അതിലെ ഒരു ഖണ്ഡിക നാളത്തെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഹ്രസ്വമായി ഒന്നോ രണ്ടോ വരികളിൽ എഴുതി മുഴുമിപ്പിക്കും Paragraphമുഴുവൻ ഓർത്തെടുക്കാൻ ആ ഒന്നോ രണ്ടോ വരി സഹായകരമാകും അഭിമുഖം നടത്തുന്നയാൾ പരീക്ഷയിൽ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ my MBA അഭിമുഖം സ്വീകരിക്കുന്നയാൾ എൻറെ പേര് അമൃത ഞാൻ ഒരു എൻജിനീയർ ആണ് ഇപ്പോൾ ഞാൻ എംബിഎ ചെയ്യാൻ എസ്ഐബിഎമ്മിലാണ് അഭിമുഖം നടത്തുന്നയാൾ നിങ്ങളുടെ പ്രായം പറയാമോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ എനിക്ക് 23 വയസ്സായി അഭിമുഖം നടത്തുന്നയാൾ അമൃത എഴുതുന്നതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനെക്കുറിച്ചും കുറച്ച് ചോദ്യങ്ങൾ മാത്രം എത്ര തവണ നിങ്ങൾ എഴുതുന്നു എന്ന് നിങ്ങൾ കരുതുന്നു അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഒരുപക്ഷേ ഒരു വർഷം മുമ്പ് വരെ ഞാൻ എൻജിനീയറിങ് ചെയ്യുന്ന സമയം മിക്കവാറും എല്ലാ ദിവസവും എഴുതിയിരുന്നു ഇപ്പോൾ രണ്ടു മൂന്നു ദിവസത്തിൽ ഒരിക്കൽ ആയിരിക്കണം അഭിമുഖം നടത്തുന്നയാൾ ശരി രണ്ടുമൂന്ന് ദിവസത്തിലൊരിക്കൽ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ എപ്പോഴാണ് എഴുതേണ്ടതിൻറെ ആവശ്യകത നിങ്ങൾക്ക് തോന്നാറുള്ളത് അഭിമുഖം സ്വീകരിക്കുന്നയാൾ സാധാരണയായി ക്ലാസ്സിൽ കുറിപ്പുകൾ എഴുതാനുള്ള സാഹചര്യത്തിൽ മൊബൈൽ ഫോണും മറ്റു ഇലക്ട്രോണിക് ഉപകരണമോ എടുക്കാത്ത സ്ഥിതിക്ക് നോട്ടുബുക്കിൽ ആണ് എഴുതാറുള്ളത് അഭിമുഖം നടത്തുന്നയാൾ ശരി അതിനാൽ നിങ്ങൾ നോട്ട് ബുക്ക് നോട്ട്പാഡ് പോലുള്ള ഒന്നിലധികം മെറ്റീരിയലുകളിൽ എഴുതുന്നു എന്നുപറയുന്നു കൂടുതലും ഏതിലാണ് എഴുതാറുള്ളത് Iഅഭിമുഖം സ്വീകരിക്കുന്നയാൾ കൂടുതലും എൻറെ നോട്ടുബുക്കിൽ ആണ് അഭിമുഖം നടത്തുന്നയാൾ അതുകഴിഞ്ഞാൽ പിന്നെ ഏതിലാണ് എഴുതാറുള്ളത് അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഒരുപക്ഷേ ലിസ്റ്റുകൾ ആയി ഡയറിയിൽ എഴുതും ഞാൻ ഒന്ന് കൈവശം വയ്ക്കാറുണ്ട് അഭിമുഖം നടത്തുന്നയാൾ ഫിസിക്കൽ ഡയറി ആണല്ലേ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ ഒരു ഫിസിക്കൽ ഡയറിയാണ് അഭിമുഖം നടത്തുന്നയാൾ അതിനാൽ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഒരു നോട്ട്ബുക്കും കൂടാതെ ഒരു ഡയറിയും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ ശരിയാണ് അഭിമുഖം നടത്തുന്നയാൾ പരീക്ഷയ്ക്കുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പ് പ്രക്രിയയിലൂടെ ഞങ്ങളെ കൊണ്ടുപോകാമോ അടുത്തദിവസം നിങ്ങൾക്ക് ഒരു പരീക്ഷയുണ്ട് എന്നു സങ്കൽപ്പിക്കുക നിങ്ങൾ തലേന്ന് രാത്രി തയ്യാറെടുക്കാൻ പോകുന്നതിനാൽ നിങ്ങൾ കൃത്യമായി എന്താണ് ചെയ്യാൻ പോകുന്നത് അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഇപ്പോൾ ഐഇ കോഴ്സിൽ അത്തരത്തിലുള്ള പരീക്ഷകൾ ഒന്നുമില്ല പക്ഷേ തുടക്കത്തിൽ പരമ്പരാഗത പരീക്ഷ മോഡിൽ ഞാൻ സാധാരണയായി ഒരുതവണ വായിക്കുമായിരുന്നു അതിനുശേഷം എനിക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ടതായി തോന്നുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയഗ്രമുകൾ പരിശീലിക്കുകയോ ചെയ്യണമെങ്കിൽ പോയിൻറ് ആക്കി എഴുതാനും പരിശീലിക്കാനും ശ്രമിക്കും അഭിമുഖം നടത്തുന്നയാൾ എഴുതുകയോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ എഴുത്ത് എല്ലായ്പ്പോഴും എൻറെ തയ്യാറെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിരുന്നു അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ വായനയ്ക്കായി ഏതുതരത്തിലുള്ള മെറ്റീരിയൽ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഒന്നുകിൽ ഹാർഡ് കോപ്പി ഞാൻ ഹാർഡ് കോപ്പിക്ക് മുൻഗണന നൽകാറുണ്ട് അല്ലെങ്കിൽ പാഠപുസ്തകത്തിന്റെ സോഫ്റ്റ് കോപ്പി ലാപ്ടോപ്പിൽ ഉണ്ടാകും അഭിമുഖം നടത്തുന്നയാൾ സോഫ്റ്റ് കോപ്പിയെക്കാൾ ഹാർഡ് കോപ്പി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും കാരണം ഉണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ എൻറെ കാഴ്ചശക്തിയെ കണക്കിലെടുത്താണ് വായിക്കാൻ ഹാർഡ് കോപ്പി ഉപയോഗിക്കുന്നത് കൂടുതൽ സൌകര്യപ്രദം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അഭിമുഖം നടത്തുന്നയാൾ ഹാർഡ് കോപ്പി അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ അഭിമുഖം നടത്തുന്നയാൾ കുറിപ്പുകൾ വായിക്കുന്നതും എഴുതുന്നതും അല്ലാതെ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ചിലപ്പോൾ മത്സരപരീക്ഷകൾ തയ്യാറെടുക്കുമ്പോൾ ഞാൻ ഓഡിയോ ടേപ്പുകൾ കേൾക്കാറുണ്ടായിരുന്നു അഭിമുഖം നടത്തുന്നയാൾ ഈ ടേപ്പുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ പ്രധാനപ്പെട്ട പോയിൻറ്കൾ എഴുതാറുണ്ട് വീണ്ടും ഓഡിയോ ടേപ്പുകൾ റഫർ ചെയ്യേണ്ടേ ഇവ വായിച്ചാൽ മാത്രം മതി അഭിമുഖം നടത്തുന്നയാൾ അതിനാൽ നിങ്ങളുടെ കുറിപ്പുകൾക്ക് പ്രാധാന്യം നൽകുന്നു അല്ലേ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ അഭിമുഖം നടത്തുന്നയാൾ നിങ്ങൾ ധാരാളം കുറിപ്പുകൾ എഴുതാറുണ്ട് ഇത്തരം കുറിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഉണ്ട് എൻറെ ആത്മ സുഹൃത്തുക്കളുമായി ഞാൻ പങ്കിടാറുണ്ട് ഇപ്പോൾ എൻറെ ജൂനിയർമാരുമായി പങ്കിടാറുണ്ട് അവർ എന്നോട് ഇവ ചോദിക്കാറുണ്ട് അഭിമുഖം നടത്തുന്നയാൾ നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് കോപ്പി നോട്ടുബുക്കുകൾ എന്നിവയാണ് നൽകുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് അഭിമുഖം സ്വീകരിക്കുന്നയാൾ എൻറെ റഫറൻസിനായി ഇത് വായിക്കണം എന്ന് കരുതി ഞാനത് ഉടനടി നൽകാറില്ല ഒരു വർഷത്തിനുശേഷം ഞാനത് നൽകാറുണ്ടായിരുന്നു ഒരു വർഷമോ അതിനുശേഷമോ ഇത് പങ്കിടുന്നതിൽ ഞാൻ വിയോജിപ്പു കാണിച്ചിട്ടില്ല അഭിമുഖം നടത്തുന്നയാൾ ശരി ഇത് പങ്കിടുന്നതിൽ നിങ്ങൾക്ക് വിയോജിപ്പില്ല അഥവാ ആ കുറിപ്പുകൾ നിങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നു എങ്കിൽ അത് നിങ്ങളെ സഹായിക്കും എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഒരുപക്ഷേ തോന്നിയിട്ടുണ്ടാവാം പക്ഷേ എല്ലാ മെറ്റീരിയലുകൾ എല്ലായിപ്പോഴും കൈവശം വയ്ക്കുന്നത് സാധ്യമല്ല അതിനാൽ അവയെ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലതേ തോന്നിയിട്ടുള്ളൂ അഭിമുഖം നടത്തുന്നയാൾ കൊള്ളാം നന്ദി മുഖം സ്വീകരിക്കുന്നയാൾ വളരെ നന്ദി അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഹായ് എൻറെ പേര് ശുഭംകൌശൽ ഞാനൊരു മെക്കാനിക്കൽ എൻജിനീയർ ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ എസ്ഐബിഎമ്മിൽ ഐടിയിൽ എംബിഎ പഠിക്കുന്നു അഭിമുഖം നടത്തുന്നയാൾ എസ് ഐ ബി എം ശരി നിങ്ങളുടെ പ്രായം പറയാമോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ 22 വയസ്സ് അഭിമുഖം നടത്തുന്നയാൾ 22 കൊള്ളാം ശുഭം എഴുതുന്നതിനെ കുറിച്ചും നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനെക്കുറിച്ചും കുറച്ച് ചോദ്യങ്ങൾ മാത്രം എത്ര തവണ നിങ്ങൾ എഴുതുന്നു എന്ന് കരുതുന്നു അഭിമുഖം സ്വീകരിക്കുന്നയാൾ യഥാർത്ഥത്തിൽ ഞാൻ ദിവസവും എഴുതാറുണ്ടായിരുന്നു അഭിമുഖം നടത്തുന്നയാൾ ദിവസവും ശരി എപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതുന്നത് അഭിമുഖം സ്വീകരിക്കുന്നയാൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ എൻറെ മനസ്സിൽ ഉള്ളപ്പോൾ എല്ലാം ഞാനത് എഴുതുമായിരുന്നു അഭിമുഖം നടത്തുന്നയാൾ നിങ്ങൾ പഠിക്കുമ്പോൾ ക്ലാസ് മുറിയിൽ എഴുതുമായിരുന്നോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ അഭിമുഖം നടത്തുന്നയാൾ പൊതുവായി എഴുതാൻ നിങ്ങൾ ഉപയോഗിച്ച വസ്തുക്കളോ മാധ്യമങ്ങൾ എന്തെല്ലാമാണ് അഭിമുഖം സ്വീകരിക്കുന്നയാൾ എന്തുതന്നെയായാലും ടീച്ചർ പറയുന്നവ അഭിമുഖം നടത്തുന്നയാൾ അതല്ല നിങ്ങൾ എന്തിലാണ് എഴുതാറുള്ളത് അഭിമുഖം സ്വീകരിക്കുന്നയാൾ നോട്ട്ബുക്ക് അഭിമുഖം നടത്തുന്നയാൾ നോട്ടുബുക്ക് അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ അഭിമുഖം നടത്തുന്നയാൾ മറ്റേതെങ്കിലും ഉപകരണം എഴുതാനായി ഉപയോഗിച്ചിരുന്നുവോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ നോട്ട് ബുക്ക് നോട്ട്പാഡ് അഭിമുഖം നടത്തുന്നയാൾ അതു കൊള്ളാം ഒരു പരീക്ഷയ്ക്കുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങളെ അറിയിക്കാമോ അടുത്തദിവസം നിങ്ങൾക്ക് ഒരു പരീക്ഷ വരുന്നുണ്ടെന്ന് സങ്കൽപ്പിക്കുക എന്നാൽ അതിനുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കും അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഒന്ന് രണ്ട് അധ്യായങ്ങൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ കോഴ്സ് പൂർത്തിയാക്കാൻ ഞാൻ ശ്രമിക്കും അഭിമുഖം സ്വീകരിക്കുന്നയാൾ ശരി രണ്ട് അധ്യായങ്ങൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ ആദ്യത്തെ അധ്യായം പൂർണമായി പഠിച്ച രണ്ടാമത്തേതും അതുപോലെ ചെയ്യും ഞാൻ അത് എഴുതുക ഇല്ല മറിച്ച് മുഴുവൻ കാര്യങ്ങളും ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഇത് പഠിക്കുക മാത്രമേ ചെയ്യൂ അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത് അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ ഞാൻ എഴുതുകയല്ല മറിച്ച് വായിച്ചു പഠിക്കാനാണ് ശ്രമിക്കാറുള്ളത് അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ എഴുത്ത് ഉൾപ്പെടുത്താതെ വായന മാത്രമാണ് അല്ലേ അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ എന്തിൽ നിന്നാണ് വായിക്കുക അഭിമുഖം സ്വീകരിക്കുന്നയാൾ പുസ്തകങ്ങളും ഇന്റർനെറ്റും അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ നിങ്ങൾ ഹാർഡ്കോപ്പി ആയ ബുക്കുകളും പിന്നെ അഭിമുഖം സ്വീകരിക്കുന്നയാൾ സോഫ്റ്റ് കോപ്പിയും ഉപയോഗിക്കുന്നു അഭിമുഖം നടത്തുന്നയാൾ ഇന്റർനെറ്റും അഭിമുഖം സ്വീകരിക്കുന്നയാൾ അതെ അഭിമുഖം നടത്തുന്നയാൾ നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്നതിന് പുസ്തകങ്ങളും ഇൻറർനെറ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും അഭിമുഖം സ്വീകരിക്കുന്നയാൾ പി പി ടി കളും ഉപയോഗിക്കും ഇൻറർനെറ്റ് നിന്നല്ല അധ്യാപകരിൽ നിന്നു ലഭിക്കുന്നത് അഭിമുഖം നടത്തുന്നയാൾ ശരി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എഴുതുന്ന ശീലം ഉണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഇല്ല അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ആണ് ചെയ്യുന്നത് പങ്കെടുത്തതിൽ നന്ദി അഭിമുഖം സ്വീകരിക്കുന്നയാൾ നന്ദി അഭിമുഖം സ്വീകരിക്കുന്നയാൾ എൻറെ പേര് നിഖിൽ ഞാൻ ബി ഐ ടി യൂണിവേഴ്സിറ്റിയിൽനിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്യൂണിക്കേഷൻ ബിടെക് കൈവരിച്ചു ഇപ്പോൾ എസ് ഐ ബി എം പൂനയിൽ എം ബി എ ചെയ്യുന്നു ഇപ്പൊ എനിക്ക് 25 വയസ്സായി അഭിമുഖം നടത്തുന്നയാൾ നന്ദി നിഖിൽ എഴുത്തും പഠനവും സംബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ മാത്രം എത്ര തവണ നിങ്ങൾ എഴുതുന്നു എന്ന് കരുതുന്നു അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഇപ്പോൾ കോളേജിൽ ഞങ്ങൾക്ക് ഒരുപാട് അസൈൻമെൻറ് കളുണ്ട് അഭിമുഖം നടത്തുന്നയാൾ സാധാരണയായുള്ള നിങ്ങളുടെ പഠനാനുഭവങ്ങൾ പറയാമോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഇതുകൂടാതെ ഞാൻ അത്രയൊന്നും എഴുതാറില്ല അഭിമുഖം നടത്തുന്നയാൾ നിങ്ങൾ അധികം എഴുതാറില്ല ശരി എഴുതുകയാണെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് അഭിമുഖം സ്വീകരിക്കുന്നയാൾ വളരെ അപൂർവ്വമായി പഠന ആവശ്യമായി ഞാൻ അധികം എഴുതാറില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ അതായത് ഒരു ഫോർമുല അത് വലിയ ഒരു ഫോർമുല ആണെങ്കിൽ അതിൽ വീണ്ടും വീണ്ടും എഴുതേണ്ടത് ആയി വരും അല്ലാത്തപക്ഷം എഴുത്ത് കുറവാണ് അഭിമുഖംനടത്തുന്നയാൾ അതിനാൽ നിങ്ങൾ സാധാരണയായി ക്ലാസിലേക്ക് പകർപ്പുകൾ കൊണ്ടു പോകാറുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ എനിക്ക് ഒരെണ്ണം ഉണ്ട് പക്ഷേ ഞാൻ കുറിപ്പുകൾ തയ്യാറാകാറില്ല ക്ലാസ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു അഭിമുഖം നടത്തുന്നയാൾ ഒരു പരീക്ഷയ്ക്കുള്ള നിങ്ങളുടെ പഠനപ്രക്രിയ എങ്ങനെ ആയിരിക്കുമെന്ന് ഞങ്ങളോട് പറയാമോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ശരി ഞാൻ സാധാരണയായി ഓൺലൈനിൽ നിന്ന് വീഡിയോസ് വഴിയാണ് പഠിക്കാറുള്ളത് സ്കൂളിൽ ആണെങ്കിൽ ഒരു പ്രസ്തുത പുസ്തകം ഉണ്ടായിരിക്കും എന്നാൽ കോളേജിൽ വ്യത്യസ്തമാണ് ധാരാളം ഓപ്ഷനുകൾ ഉണ്ട് പ്രൊഫസർമാർ പങ്കിടുന്ന അവതരണങ്ങൾ ഉണ്ട് അല്ലാത്തപക്ഷം ഇൻറർനെറ്റിൽ നിന്നും വീഡിയോസ് വഴി പഠിക്കും എനിക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളെയും പറ്റി ധാരാളം വീഡിയോകൾ എൻപിടിഎൽ ലഭ്യമാണ് അഭിമുഖം നടത്തുന്നയാൾ അപ്പോൾ നിങ്ങൾക്ക് എഴുത്തു കുറവാണ് അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഒരു വീഡിയോ അല്ലെങ്കിൽ അവതരണം കണ്ടതിനുശേഷം വായിച്ചാൽ 80 മുതൽ 90 ശതമാനം വരെ ഓർത്തെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു പരീക്ഷയ്ക്ക് അര മണിക്കൂർ മുൻപ് ഒരു റീ ക്യാപ് അനിവാര്യമാണ് അഭിമുഖം നടത്തുന്നയാൾ ഇൻറർനെറ്റിൽ നിന്നുള്ള വീഡിയോസ് അതുകൂടാതെ അധ്യാപകരിൽ നിന്നുളള ഉള്ളടക്കം നോക്കാറുണ്ടോ അഭിമുഖം സ്വീകരിക്കുന്നയാൾ ഇല്ല അത് അങ്ങനെയല്ല അധ്യാപകരുടെ കൈയിൽ വലിയ അവതരണങ്ങളാണ് ഉണ്ടാവാറുള്ളത് അവരുടേതായ പിപിടി ഉണ്ട് എന്നാൽ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ അതും തിയററ്റിക്കൽ ആണെങ്കിൽ ഞാൻ സ്വയം വീഡിയോസ് കണ്ടെത്തും അതിനായി എൻപിടിഎൽ എന്ന ദേശീയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കും അതിൽ ഐഐടി പ്രൊഫസർ പങ്കുവയ്ക്കുന്ന അരമണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ആണെങ്കിലും വിഷയത്തെ കുറിച്ച് ധാരാളം വിശദീകരിക്കും അതാണ് ഞാൻ ചെയ്യാറുള്ളത് അഭിമുഖം നടത്തുന്നയാൾ ശരി ഇവിടെ അവസാനിക്കുന്നു നന്ദി അഭിമുഖം സ്വീകരിക്കുന്നയാൾ നന്ദി